കഴിഞ്ഞ ലെക്ച്ചറിൽ ഫ്ലോട്ടിങ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് സ്ക്രൂ ത്രെഡ് അളക്കുന്നത് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ മൈക്രോമീറ്റർ ഉപകരണങ്ങളും സ്ലിപ് ഗേജുകളൂം പഠിക്കും അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ കഴിഞ്ഞ ലക്ച്ചറിൽ കണ്ടു അതുപയോഗിച്ചു ഒരു പ്രെശ്നം പരിഹരിക്കാം 5 mm പിച്ച് ഉള്ള ഒരു സ്ക്രൂ ഗേജ് പിച്ച് എന്നാൽ തുടർച്ചയായി വരുന്ന രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള അകലമാണ് 5 mm ആണ് 50 ഡിവിഷനുകൾ ഉള്ള സർക്കുലർ സ്കെയിൽ ഉപയോഗിച്ചു കനം കുറഞ്ഞ അലൂമിനിയം ഷീറ്റുകൾ അളക്കുന്നു സ്ക്രൂ ഗേജിന്റെ രണ്ടു ജോകളും 45ആം ഡിവിഷനിൽ കൂട്ടിമുട്ടുന്നതായി അളക്കുന്നതിനു മുൻപ് കാണാൻ കഴിയും ഇത് ഒരു എറർ ആണ് അതുപോലെ സീറോ മെയിൻ സ്കെയിൽ റീഡിങ് ചെറുതായി മാത്രമേ കാണാൻ കഴിയു മെയിൻ സ്കെയിൽ റീഡിങ് 0 5 mm 25ആം ഡിവിഷനുമായി യോജിക്കുന്നു എങ്കിൽ ഷീറ്റിന്റെ കനം എത്രെ ആയിരിക്കും ഈ പ്രെശ്നം പരിഹരിക്കുന്നതിലൂടെ മനസ്സിലാക്കണ്ടത് ഇതാണ് അളക്കാൻ ഉപയോഗിക്കുന്ന ഏതു ഉപകരണവുമായിക്കൊള്ളട്ടെ അത് ആദ്യം സീറോ റീഡിങ് നൽകണം അതിനെ സീറോ ഡയമീറ്റെർലിങ് എന്ന് പറയുന്നു സ്ക്രൂ ഗേജിൽ ജോ അടുപ്പിക്കുമ്പോൾ സീറോ ഡിവിഷൻസ് യോജിച്ചിരിക്കണം അങ്ങനെയല്ലെങ്കിൽ അവിടെ ഒരു എറർ ഉണ്ട് അതിനാൽ ആദ്യം ഈ എറർ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾ എറർ അറിയാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് അന്തിമ ഉത്തരം ലഭിക്കുമ്പോൾ അവസാന ഉത്തരത്തിൽ നിന്ന് അത് കുറയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ശരിയായ ഉത്തരം ലഭിക്കും അതിനാൽ അളക്കുന്നതിന് മുമ്പ് ദയവായി ഈ സീറോ ഡയമീറ്റെർലിങ് ശ്രമിക്കുക ലീസ്റ്റ് കൌണ്ട് എന്നാൽ പിച്ചിനെ സർക്കുലർ സ്കെലിൽ ഉള്ള ഡിവിഷൻസ് കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്നത് ആണ് 5 നെ 50 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇത് 0 അപ്പോൾ എറർ നെഗറ്റീവ് സീറോ എന്നത് 5നെ 01 ലീസ്റ്റ് കൌണ്ട് കൊണ്ട് ഗുണിക്കുന്നതാണ് അപ്പോൾ അളന്ന മൂല്യം എന്നത് മെയിൻ സ്കെയിൽ റീഡിങ് ഒപ്പം സ്ക്രൂ ഗേജ് റീഡിങ് കൂട്ടുകയും ഇനിഷ്യൽ എറർ കുറക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ ഇത് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായി പറയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ 0 എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് 0 5 മില്ലിമീറ്ററും 25 ഉം 0 01 മില്ലിമീറ്ററും ഇത് മൈനസ് 0 05 മില്ലിമീറ്ററുമാണ് അതിനാൽ ഉത്തരം 0 80 മില്ലിമീറ്ററാകും ഇത് ഷീറ്റിന്റെ കനം ആയിരിക്കും നമുക്ക് ഒരു പ്രശ്നം കൂടി ശ്രമിക്കാം Least Count L C pitchno of divisions on circular scale 0 550 0 01 0 05 mm Measured value Main scale Reading Screw gauge Reading - Error 0 01 0 80 mm ഒരു സ്ക്രൂ ഗേജിൽ മെയിൻ സ്കെയിലിന്റെ സീറോ ഒരു സർക്കുലർ സ്കെയിലിന്റെ അഞ്ചാമത്തെ ഡിവിഷനുമായി യോജിക്കുന്നു സ്ക്രൂ ഗേജിന്റെ സർക്കുലർ സ്കെയിൽ ഡിവിഷനുകൾ 50 ആണ് ഇത് ഒരു കറക്കത്തിൽ പ്രധാന സ്കെയിലിൽ 0 5 മില്ലിമീറ്റർ നീങ്ങുന്നു അങ്ങനെഎങ്കിൽ പന്തിന്റെ വ്യാസം എന്താണ് സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൌണ്ട് പിച് നെ L ഉപയോഗിച്ച് ഹരിക്കുന്നതിനു തുല്യമാണ് നമ്മൾ കണ്ട ഫോർമുല ആണിത് അതിനാൽ ഇത് 0 5 നെ 50 കൊണ്ട് ഹരിക്കുന്നു അത് 0 01 മില്ലിമീറ്റർ പന്തിന്റെ വ്യാസം 2 ഗുണം 0 5 മില്ലിമീറ്റർ ഗുണം 25 മൈനസ് 5 ഗുണം 0 01 മില്ലിമീറ്റർ ഇത് 1 2 മില്ലിമീറ്ററല്ലാതെ മറ്റൊന്നുമല്ല ശരി ഇതാണ് പന്തിന്റെ വ്യാസം Least Count L C of the Screw Gauge Pitchn 0 2 mm അടുത്തതായി നമുക്ക് സ്ലിപ്പ് ഗേജുകളിലേക്ക് പോകാം ഗേജ് ബ്ലോക്കുകൾ എന്നും വിളിക്കപ്പെടുന്നു ഇവയ്ക്ക് വിയർ ടിയർ wear tear എന്നിവ പോലുള്ള ചില പരിമിതികളെ ചെറുക്കാൻ കഴിയും ഇത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അളവുകളിൽ എറർ ശേഖരിക്കപ്പെടാൻ ഇടയാക്കും സ്ലിപ്പ് ഗേജ് അടിസ്ഥാനപരമായി ഒരു ലീനിയർ അളവിനേക്കാൾ ഏൻഡ് അളവാണ് ഗേജ് ബ്ലോക്കുകളുടെ ഉത്ഭവം സ്വീഡനിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ കണ്ടെത്താൻ കഴിയും അവിടെ മെഷീൻ ഷോപ്പിൽ ഗേജ് സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ആധുനിക കാലങ്ങളിൽ സ്ലിപ്പ് ഗേജുകളോ ഗേജ് ബ്ലോക്കുകളോ slip gaugegauge block സ്വീഡിഷ് ആയുധശാല ഇൻസ്പെക്ടറായ ജോഹാൻസൺ നടത്തിയ പ്രവർത്തനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു അതിനാൽ ഗേജ് ബ്ലോക്കിനെ ജോഹാനാസന്റെ ഗേജ് Johanasson's gauge എന്ന് വിളിക്കുന്നു ഇതൊരു സാധാരണ സ്ലിപ്പ് ഗേജ് ബ്ലോക്കാണ് ഏൻഡ് അവസാന അളവെടുപ്പാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് 16 മില്ലിമീറ്റർ 30 മില്ലിമീറ്റർ 2010 9 എന്നിവ ഉണ്ടാകും അതിനാൽ ഒരു മൂല്യം 79 00 മില്ലിമീറ്ററാണെങ്കിൽ നിങ്ങൾ 79 00 മില്ലിമീറ്റർ ഉണ്ടാക്കണം അതിനാൽ അത് 89 ആയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ 20 ന് പകരം നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ 79 ആണെങ്കിൽ 10 എടുക്കാൻ ശ്രമിക്കുക 60 എണ്ണം 10 ഉം 9 ഉം എടുക്കുക അതിനാൽ ഇപ്പോൾ 3 ബ്ലോക്കുകൾ എടുക്കുകയും ഈ 3 ബ്ലോക്കുകൾ ഘടിപ്പിക്കുകയും ചെയ്യുന്നു അവ പരസ്പരം മുകളിൽ മുകളിൽ സ്ഥാപിക്കുകയും നമ്മൾ മൈക്രോൺ കൃത്യതയ്ക്കായി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഗേജ് ബ്ലോക്കുകൾക്കിടയിൽ ഒരു വിടവും ഉണ്ടാകരുത് ശരി അതിനാൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഗേജ് ബ്ലോക്കുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മൂല്യങ്ങൾ എടുക്കുകയും അത് പരിഹരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ശേഖരിച്ചു ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് 3 എൻഡ് ഗേജുകൾ നിങ്ങൾ തയ്യാറാക്കി അതിനാൽ നിങ്ങൾക്ക് ഒരു അളവ് എടുക്കണമെങ്കിൽ ഇത് ഉയരത്തിന്റെ കാര്യത്തിൽ തികച്ചും അളക്കാൻ കഴിയും അതിനാൽ ഇത് ഗേജ് 1 ഗേജ് 2 ഗേജ് 3 60 10 79 ശരി അതിനാൽ ഗേജ് ബ്ലോക്കുകളുടെ ആകൃതിയും വലുപ്പങ്ങളും ഉപരിതല പ്ലേറ്റുകളിൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഗ്രേഡുകൾ പോലെ നിരവധി ഗ്രേഡുകൾ ഉണ്ട് അതിനാൽ ഇവിടെയും നിങ്ങൾക്ക് ഗ്രേഡുകളും വലുപ്പങ്ങളും ഉണ്ടായിരിക്കും സ്ലിപ്പ് ഗേജുകൾ 3 അടിസ്ഥാന ആകൃതിയിലാണുള്ളത് ദീർഘചതുരം ഒരു കേന്ദ്ര ദ്വാരമുള്ള ചതുരം കേന്ദ്ര ദ്വാരമില്ലാത്ത ചതുരം വിവിധ ആപ്ലിക്കേഷനുകൾക്ക് നമ്മൾ ഒരു ദീർഘചതുര തരത്തെ ആണ് കാണേണ്ടത് ഇടം നിയന്ത്രിക്കുകയും അധിക ഭാരം ഒഴിവാക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ സൌകര്യപ്രദമായതിനാൽ ദീർഘചതുരം തരം സാധാരണയായി ഉപയോഗിക്കുന്നു സ്ക്വയർ സ്ലിപ്പ് ഗേജിന് വലിയ ഉപരിതല വിസ്തീർണ്ണമുണ്ട് കുറഞ്ഞ വിയർ നിരക്കും അവ പരസ്പരം റംഗ് ചെയ്യപ്പെടുമ്പോൾ നന്നായി യോജിക്കുന്നു റംഗ് ഒരു പ്രവർത്തനമാണ് അതിനാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഒരു ബ്ലോക്ക് എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ശരി ഇത് ഗേജ് 1 അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് 1 ഇത് ബ്ലോക്ക് 2 ആണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ജി 1 സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് നമ്മൾ അതിന് മുകളിൽ ജി 2 സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അതിന്റെ മധ്യരേഖയിൽ ചുറ്റിക്കറങ്ങാൻ ശ്രമിക്കുകയാണ് തുടർന്ന് ജി 1 ജി 2 എന്നിവ പരസ്പരം മുകളിൽ നിർമ്മിക്കുന്നു അതിനാൽ ആദ്യം സ്ലൈഡുചെയ്യാനും സ്ഥാപിക്കാനും അനുവദിച്ചിരിക്കുന്നു തുടർന്ന് നമ്മൾ ചെയ്യുന്നത് സ്ലൈഡ് ചെയ്ത് ലംബമായി സ്ഥാപിക്കുക എന്നതാണ് അതിനാൽ ജി 2 ജി 1 എന്നിവ വിന്യസിക്കുന്ന രീതിയിൽ ജി 2 തിരിക്കുന്നു അതിനാൽ സ്ലൈഡിംഗിനും കറങ്ങലിനുമുള്ള ഈ പ്രക്രിയയെ റംഗിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റംഗ് എന്ന് വിളിക്കുന്നു സെന്റർ ഹോളുള്ള സ്ക്വയർ ബ്ലോക്ക് ടൈ റോഡുകളുടെ ഉപയോഗം അനുവദിക്കുന്നു ഇത് ബിൽറ്റ് അപ്പ് സ്ലിപ്പ് ഗേജുകൾ വേറിട്ടുനിൽക്കില്ലെന്ന് ഉറപ്പാക്കുന്നു ടൈ റോഡ് എന്നാൽ അടിസ്ഥാനപരമായി അതിനിടയിൽ ഒരു റോഡ് ഉണ്ട് അങ്ങേയറ്റത്തെ അറ്റത്ത് നിങ്ങൾക്ക് രണ്ട് നട്ട് അല്ലെങ്കിൽ രണ്ട് സ്പേസ് അല്ലെങ്കിൽ രണ്ട് സ്റ്റോപ്പർ ഉണ്ട് സ്ലിപ്പ് ഗേജുകളെ അവയുടെ ഗ്യാരണ്ടീഡ് കൃത്യതയനുസരിച്ച് ഗ്രേഡുകളായി തിരിച്ചിരിക്കുന്നു ഗ്രേഡ് 2 ഗ്രേഡ് 1 ഗ്രേഡ് 0 ഗ്രേഡ് 00 കാലിബ്രേഷൻ ഗ്രേഡ് എന്നിവ 5 ഗ്രേഡ് സ്ലിപ്പ് ഗേജുകളിൽ ചിലതാണ് ഗ്രേഡ് 2 സാധാരണയായി വർക്ക് ഷോപ്പിൽ ഉപയോഗിക്കുന്നു ഗ്രേഡ് 1 സാധാരണയായി ടൂൾ റൂമിൽ ഉപയോഗിക്കുന്നു ഇൻസ്പെക്ഷൻ ഗ്രേഡ് സ്ലിപ്പ് ഗേജുകളിൽ ഗ്രേഡ് 0 ഉപയോഗിക്കുന്നു ഗ്രേഡ് 00 സ്റ്റാൻഡേർഡ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നു ഉയർന്ന കൃത്യത പരിശോധിക്കുന്നതിനും കാലിബ്രേഷൻ ചെയ്യുന്നതിനും മാത്രം ഉപയോഗിക്കുന്നു കാലിബ്രേഷൻ ഗ്രേഡ് ഒരു പ്രത്യേക ഗ്രേഡാണ് ഇതിനായി സ്ലിപ്പ് ഗേജുകളുടെ സെറ്റ് ഇതിനായി ഒപ്പം നൽകിയിരിക്കുന്ന ചാർട്ടിൽ അവയുടെ യഥാർത്ഥ വലിപ്പം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഇത് ഓപ്പറേറ്റർ പ്രവർത്തിക്കുന്ന ഷോപ്പ് ഫ്ലോറിലാണ് തുടർന്ന് ഇത് ഒരു ടൂൾ റൂമിലേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് ടൂൾ റൂം ഫാക്ടറിക്കുള്ളിലോ നഗരത്തിലോ സംസ്ഥാനത്തോ ഹയർ എൻഡിൽ കാലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു തുടർന്ന് അത് കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതുപോലെയുള്ള സ്റ്റാൻഡേർഡ് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചത് ഇത് ജില്ലാതലമാണെന്നും ഇത് സംസ്ഥാനതലമാണെന്നും ഇത് രാജ്യതലമാണെന്നും ഇത് ഒരു പ്രത്യേക തരം ആണ് അതിനാൽ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന 5 ഗ്രേഡ് ഗേജുകൾ അല്ലെങ്കിൽ സ്ലിപ്പ് ഗേജുകൾ ഇവയാണ് അതിനാൽ ഗേജ് ബ്ലോക്ക് ആകൃതി ഗ്രേഡുകളും വലുപ്പങ്ങളും മെട്രിക് ഇഞ്ച് യൂണിറ്റുകളിൽ metricinch സ്റ്റാൻഡേർഡ് സെറ്റുകളിൽ ലഭ്യമാണ് ഇന്നും ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇഞ്ചുകൾ വലിയ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്നു അതിനാലാണ് നമ്മൾക്ക് ഇപ്പോഴും മെട്രിക്കും ഇഞ്ചും ഉള്ളത് മെട്രിക് സെറ്റിൽ 31 48 56 103 പീസുകൾ ലഭ്യമാണ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവ 1 2 3 4 5 പീസുകളാണ് അതിനാൽ നിങ്ങൾക്ക് 103 പീസുകൾ 56 48 31 എന്നിങ്ങനെയായിരിക്കാം നമ്മൾ 103പീസുകൾ എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം ആവശ്യമുള്ള ഉയരത്തിനായി ഈ സ്ലിപ്പ് ഗേജ് ബ്ലോക്കുകൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ദശാംശ അല്ലെങ്കിൽ മൂന്നാമത്തെ ദശാംശ കൃത്യതയിലേക്ക് പോകാം ഉദാഹരണത്തിന് 103 പീസുകളുടെ ഗണത്തിൽ ഇനിപ്പറയുന്നവ അടങ്ങിയിരിക്കുന്നു ഒരു പീസ് 1 005 മില്ലിമീറ്റർ അതിനാൽ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ ദശാംശ കൃത്യത നിങ്ങൾ കാണുന്നു 49 നെക്കുറിച്ച് പറയുമ്പോൾ അത് 1 1 മുതൽ 1 49 വരെയാണ് അതിനാൽ ഇത് രണ്ടാമത്തെ ദശാംശമാണ് നിങ്ങൾ അതിനെ കൂടുതൽ കുറയ്ക്കുമ്പോൾ 0 01 മില്ലിമീറ്റർ ഘട്ടങ്ങളിൽ നിങ്ങൾ 49 പീസ് റേഞ്ചിലേക്ക് 0 5 മുതൽ 24 5 വരെ പോകുമ്പോൾ സ്റ്റെപ്പ് വലുപ്പം 0 5 ഉം നാല് പീസുകൾ 25 മുതൽ 100 വരെ 25 മില്ലിമീറ്ററുമാണ് 103 എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ എല്ലാം സംഗ്രഹിച്ചാൽ നിങ്ങൾക്ക് 103 ലഭിക്കും കൃത്യത 1 005 ലഭിക്കും ഈ 1 01 ന്റെ സ്റ്റെപ്പ് വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള ശ്രേണിയിലുള്ള 49 പീസ് അതിനാൽ നിങ്ങൾക്ക് 23 545 ഉണ്ടെന്ന് കരുതുക നിങ്ങൾക്ക് ഇത് ബ്ലോക്കിൽ നിന്ന് നിർമ്മിക്കാൻ ആരംഭിക്കാം ഉദാഹരണത്തിന് 1 അതിനാൽ നിങ്ങൾ മൈനസ് 1 005 എന്ന് പറയുന്നു അതിനാൽ ഇപ്പോൾ ഇത് 23 54 ആണ് ഇത് നിങ്ങൾ നിർമ്മിക്കുന്നത് ഗേജ് 1 ആണ് അടുത്തതായി ഞാൻ ഇത് ചെയ്യാൻ ശ്രമിക്കും 1 04 ആണെങ്കിൽ ഇപ്പോൾ ഗേജ് 2 ബ്ലോക്ക് ഉണ്ട് ഞാൻ 23 എടുക്കും ഇത് 21 500 ആയി മാറുന്നു അതിനാൽ ഞാൻ 23 500 എടുക്കുന്നു 1 500 കൊണ്ട് മൈനസ് ചെയ്യുന്നു അതിനാൽ എനിക്ക് 20 ലഭിക്കും അതിനാൽ ഇത് ഗേജ് 3 ആണ് ഒടുവിൽ എനിക്ക് നേരിട്ട് ഈ ഗേജിന്റെ ഒരു ബ്ലോക്ക് ഉണ്ട് അതിനാൽ ഇത് 00 000 ആണ് അതിനാൽ ഇത് ഗേജ് 4 അതിനാൽ ഇപ്പോൾ നാല് ഗേജ് ബ്ലോക്കുകളോടെ ഗേജ് 4 ഗേജ് 3 ഗേജ് 2 ഗേജ് 1 എനിക്ക് ഇത് നിർമ്മിക്കാൻ കഴിയുന്നത് 23 545 മില്ലിമീറ്ററാണ് അതിനാൽ മൈക്രോണിന്റെ കൃത്യതയ്ക്കായി എനിക്ക് സ്ലിപ്പ് ഗേജുകൾ നേടാൻ കഴിയും തുടർന്ന് എനിക്ക് ഉയരം കണക്കാക്കാൻ കഴിയും ഇപ്പോൾ ഈ ഉയരം എനിക്ക് ഒരു സ്ക്രൂ ഗേജിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് അത് ഒരു വെർനിയറിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് അത് ഹയിറ്റ് ഗേജിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ ഈ ഉയരം എന്താണെന്ന്കണ്ടെത്താം ഇപ്പോൾ ഞാൻ ഒരു ഏൻഡ് അളവെടുപ്പിനെ ഒരു രേഖീയ അളവുകോലായി അല്ലെങ്കിൽ മറ്റൊരു ഏൻഡ് അളവുകോലാക്കി മാറ്റി അതിനാൽ ഈ ഉപകരണത്തിൽ ഞാൻ അളക്കുന്നതെന്തും മികച്ചതാണെന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പാക്കാൻ കഴിയും കാലിബ്രേഷൻ ഇങ്ങനെയാണ് നമ്മൾ നീക്കംചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഗേജുകൾ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു ഒരു സ്ലിപ്പ് ഗേജിന്റെ റിംഗിംഗ് പരന്നതും മിനുസമാർന്നതുമായ രണ്ട് ഉപരിതലങ്ങൾ പരസ്പരം അടുത്ത് വരുമ്പോൾ അവ ഒത്തുപോകുന്ന പ്രതിഭാസമാണ് റിംഗിംഗ് ആഡ്ഹഷൻ ശക്തി കൊണ്ട് ഒരു കൂട്ടം ബ്ലോക്കുകളുടെ ശേഖരം ഏതാണ്ട് ഒരൊറ്റ ബ്ലോക്കായി വർത്തിക്കും കൂടാതെ നിങ്ങൾ സ്ലിപ്പ് ഗേജുകൾ ഉപയോഗിച്ചതിന് ശേഷം അത് നിവർന്ന് തിരിക്കുകയും സ്ലിപ്പ് ഗേജുകൾ താഴേക്ക് വീഴുന്നുണ്ടോ എന്ന് നോക്കുകയും വേണം അതിനാൽ ഇത് ഒരു പശയും കൂടാതെ ഒരു സമ്പൂർണ്ണ കോൺടാക്റ്റ് ആയിരിക്കണം കൂടാതെ വ്യക്തിഗത ബ്ലോക്കുകളുടെ സ്ഥാനത്തെ ശല്യപ്പെടുത്താതെ കൈകാര്യം ചെയ്യാനും ചുറ്റിക്കറങ്ങാനും കഴിയും ഉപരിതലങ്ങൾ വൃത്തിയുള്ളതും പരന്നതുമാണെങ്കിൽ ബ്ലോക്കിനെ വേർതിരിക്കുന്ന ഫിലിമിന്റെ നേർത്ത പാളിക്ക് തുച്ഛമായ കനം ഉണ്ടാകും ഇതിനർത്ഥം അറിയപ്പെടുന്ന അളവുകളുടെ ഒന്നിലധികം ബ്ലോക്കുകൾ അടുക്കി വയ്ക്കുന്നത് മൊത്തത്തിലുള്ള അളവ് കുറഞ്ഞ എറർ നൽകും എന്നാണ് കാരണം 23 545 ന്റെ ഒരു ബ്ലോക്ക് ലഭിക്കുന്നത് സാധ്യമായതിന്റെ അടുത്താണ് രണ്ടാമത്തേത് ഈ കോമ്പിനേഷനുകൾ നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഒരു ബ്ലോക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മോഡുലാർ ആശയം പോലെയാണ് വാസ്തവത്തിൽ ഒരു മോഡുലാർ ആശയം തന്നെ ആണ് അത് പരിശോധനയിൽ തന്നെ ഉപയോഗിക്കുന്നു റിംഗിംഗ് എന്താണ് നിങ്ങൾക്ക് ഗേജ് 1 ഗേജ് 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ആദ്യം നമ്മൾ പ്രയോഗിച്ച സമ്മർദ്ദവും സ്ലൈഡുകളും സ്ലൈഡുചെയ്യുന്നു അതിനാൽ ഇത് ലംബമായി മാറുന്നു തുടർന്ന് നമ്മൾ അത് തിരിക്കുന്നു അതിനുശേഷം ഒന്നിനുശേഷം ഇടുന്നു അതിനാൽ ഇത് ജി 2 ആണ് ഇത് ജി 1 ആണ് അതിനാൽ ജി 2 ജി 1 ഇപ്പോൾ ജി 1 അകത്തും ജി 2 രണ്ടും വിന്യസിച്ചിരിക്കുന്നു അതിനാൽ ഇത് നമ്മൾ മുമ്പ് ചർച്ചചെയ്തു സ്ലിപ്പ് ഗേജുകളുടെ നിർമ്മാണം എങ്ങനെയാണ് ചെയ്യുന്നത് സ്ലിപ്പ് ഗേജുളിലെ വ്യക്തിഗത ഗേജുകൾ കഴിയുന്നത്ര പരന്നതായിരിക്കണം അതിന് ഉപരിതലത്തിൽ യാതൊരു വിധത്തിലുള്ള അൺഡുവലേഷൻ ഉണ്ടാകരുത് ആദ്യമായി റഫ്നെസ് സ്മൂത്ത്നെസ് roughness smoothness ഇവ രണ്ടും നല്ലതായിരിക്കണം ഇവ 1D ആണ് ഫ്ലാറ്റ്നെസ് എന്ന് വിളിക്കുന്ന ഒന്നിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഫ്ലാറ്റ്നെസ് ഒരു 3D പാരാമീറ്ററാണ് അതിനാൽ ഇവിടെ ൾ രണ്ട് ഫ്ലാറ്റ് പേരുകളെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു മുകളിലേക്കും താഴേക്കും ഒരു മൈക്രോണിന്റെ കൃത്യതയെക്കുറിച്ച് കഴിയുന്നത്ര പരന്നതായിരിക്കണം മെക്കാനിക്കൽ എഞ്ചിനീയർമാരുടെ പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ഏറ്റവും ഉയർന്ന അളവിലുള്ള കൃത്യതയിലേക്കും സൂഷ്മതയിലേക്കും സ്ലിപ്പ് ഗേജുകൾ നിർമ്മിക്കുന്നത് കൃത്യത പരന്നത സമാന്തരത ഉപരിതല ഗുണനിലവാരം എന്നിവ അളക്കേണ്ടതുണ്ട് അന്താരാഷ്ട്ര രീതികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് ജർമ്മൻ സീസ് German ശുപാർശ ചെയ്യുന്ന രീതിയാണ് ഇന്ത്യയിലെ രീതി നാഷണൽ ഫിസിക്സ് ലബോറട്ടറി എൻപിഎൽ സ്റ്റാൻഡേർഡ് ഉണ്ട് അതിൽ അവർ സ്ലിപ്പ് ഗേജുകൾ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ സ്ലിപ്പ് ഗേജുകൾ കാലിബ്രേറ്റ് ചെയ്യുന്നു നിർമ്മിക്കുന്നത് ഇന്ത്യൻ നിലവാരം പുലർത്തുന്നു സ്ലിപ്പ് ഗേജുകളുടെ കാലിബ്രേഷൻ ഒരു കമ്പറേറ്റർ ഉപയോഗിച്ച് കാലിബ്രേഷൻ ഗേജുമായി നേരിട്ടുള്ള താരതമ്യത്തിലൂടെ സ്ലിപ്പ് ഗേജുകൾ കാലിബ്രേറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്റ്റാക്ക് തയ്യാറാക്കിയത് എന്നിട്ട് നിങ്ങൾ കാലിബ്രേറ്റഡ് ഗ്രേഡ് ഉണ്ടാക്കി ഇവയ്ക്കിടയിൽ നിങ്ങൾ ഒരു കമ്പറേറ്റർ ഇട്ടു ഈ കമ്പറേറ്റർ ഒരു മെക്കാനിക്കൽ തരം ആകാം ഒപ്റ്റിക്കൽ ആകാം ഉപയോഗിച്ച് അവർ രണ്ട് ഉയരങ്ങളും ഉണ്ടോയെന്ന് പരിശോധിക്കുന്നു ശരി സ്ലിപ്പ് ഗേജ് കൃത്യമായ ഇടവേളകളിൽ കാലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനർത്ഥം ഏതെങ്കിലും അളക്കുന്ന ഉപകരണം കൃത്യമായ ഇടവേളകളിൽ കാലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്പം നാശം സംഭവിച്ച സ്ലിപ്പ് ഗേജ് പോലും ഗുണനിലവാരത്തിലും മെറ്റീരിയലിലും നാശം സൃഷ്ടിക്കും സ്ക്രൂ ഗേജുകൾ വ്യത്യസ്ത തലത്തിൽ കാലിബ്രേറ്റ് ചെയ്യുന്നതിനുള്ള ഷെഡ്യൂളുകൾ എൻപിഎൽ ശുപാർശ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ താൽപ്പര്യമുള്ള ഈ ലഭ്യമായ സംഖ്യാ പ്രശ്നത്തിന് കീഴിലുള്ള 87 സ്ലിപ്പ് ഗേജ് ആണ് അതിനാൽ ഈ ശ്രേണിക്ക് ഇടയിലുള്ള ബ്ലോക്കുകളുടെ എണ്ണം 0 001 സ്റ്റെപ്പ് നിങ്ങൾക്ക് 9 ബ്ലോക്കുകളാണുള്ളത് ഇതിന്റെ സ്റ്റെപ്പ് വലുപ്പത്തിൽ 1 1 മുതൽ 1 49 വരെ നിങ്ങൾക്ക് 49 ബ്ലോക്കുകളുണ്ട് 0 5 മുതൽ 9 5 വരെ നിങ്ങൾക്ക് 0 5 സ്റ്റെപ്പ് വലുപ്പവും 0 5 ഉം ഉണ്ട് സ്റ്റെപ്പ് സൈസിന് നിങ്ങൾക്ക് 19 ബ്ലോക്കുകളുണ്ട് ഒടുവിൽ നിങ്ങൾക്ക് 1 ഉണ്ട് അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് 29 പോയിന്റിനായി സ്ലിപ്പ് ഗേജുകൾ നിർമ്മിക്കുക എന്നതാണ് 758 ന് സ്ലിപ്പ് ഗേജ് നിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ശരി അതിനാൽ നിങ്ങൾ 0 08 എന്ന തുകയിലേക്ക് മടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒമ്പത് ബ്ലോക്കുകളുണ്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ എടുക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ ആദ്യം ഞാൻ 29 578 എടുക്കാൻ ശ്രമിക്കും തുടർന്ന് 1 008 കുറയ്ക്കുക അതിനാൽ എനിക്ക് 28 750 ലഭിക്കുന്നു തുടർന്ന് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നു അടുത്ത ഘട്ടത്തിൽ എനിക്ക് 1 25 തിരഞ്ഞെടുക്കാം അതിനാൽ അടുത്ത ഗേജ് മൈനസ് 1 250 എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് ഗേജ് 1 ആണ് ഇത് ഗേജ് 2 സ്ലിപ്പ് ഗേജ് 1 സ്ലിപ്പ് ഗേജ് 2 അതിനാൽ എനിക്ക് 27 500 ഉണ്ട് ശരിയാണ് ഞാൻ ചെയ്യുന്നത് ഈ തിരഞ്ഞെടുക്കലിലാണ് അതിനാൽ എനിക്ക് 7 5 അടുത്തതായി കുറയ്ക്കും അതിനാൽ എനിക്ക് 20 000 ലഭിക്കുന്നു ഒടുവിൽ ഞാൻ 20 000 എടുക്കുന്നു ഇത് 0 ആണ് അതിനാൽ എനിക്ക് ഗേജ് 3 ഉം ഗേജ് 4 ഉം ഉണ്ട് അതിനർത്ഥം ഞാൻ ആദ്യം 20 ഇടുമെന്ന് പറയുക ഇത് ഗേജ് 4 ആണ് തുടർന്ന് ഞാൻ 7 5 ഗേജ് 3 ഇട്ടു തുടർന്ന് ഞാൻ 1 25 ഗേജ് 2 എനിക്ക് ഗേജ് 1 ഉണ്ട് അതിനാൽ ഈ മുഴുവൻ ഉയരവും ഇപ്പോൾ 29 75 ഗേജ് ആണ് അടുത്ത ഗേജ് നിർമ്മിക്കുന്നതിന് ഈ ശരിയായ വിന്യാസം ലഭിക്കുന്നതിന് ഞാൻ ഗേജുകളുടെ റിംഗിംഗ് ഉപയോഗിച്ചു അടുത്തത് ഗേജ് നിർമ്മിക്കുന്നതിന് 46 635 മില്ലിമീറ്ററിന് സ്ലിപ്പ് ഗേജുകൾ നിർമ്മിക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾ ബോക്സിലേക്ക് നോക്കണം ഇവിടെ ലഭ്യമായ ഘട്ടങ്ങൾ നിങ്ങൾ നോക്കണം എന്നിട്ട് ബോക്സിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കണം അതിനാൽ അത് 46 635 ആകും ആദ്യം ഞാൻ 1 005 ഇടും എനിക്ക് 45 630 ലഭിക്കും തുടർന്ന് ഞാൻ 1 130 കുറയ്ക്കുന്നു അതിനാൽ എനിക്ക് 40 നാല് പോയിന്റ് 44 പോയിന്റ് ലഭിക്കുന്നു തുടർന്ന് ഞാൻ ചെയ്യുന്നത് കുറയ്ക്കുക 4 അതിനാൽ എനിക്ക് 40 ന്റെ ഒരു ബ്ലോക്ക് ലഭിക്കുന്നു തുടർന്ന് ഞാൻ 40 കുറയ്ക്കുന്നു ഇത് ലഭ്യമാണെങ്കിൽ എനിക്ക് ഈ 40 എഴുതാൻ കഴിയും നിങ്ങൾ 40 നേരിട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് 20 ഉം 20 ഉം ആയി ചെയ്യാൻ കഴിയും അതിനാൽ ലഭ്യമായതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ നിങ്ങളുടെ ബോക്സിൽ നിങ്ങൾ ഈ ഗേജുകൾ തിരഞ്ഞെടുത്ത് അത് പരിഹരിക്കാൻ ആരംഭിക്കണം അതിനാൽ ഒടുവിൽ നമ്മൾക്ക് 1 005 1 13 4 5 40 എന്നിവ ലഭിക്കും നിങ്ങൾക്ക് ഒത്തുചേർക്കാനും അതിനുശേഷം Build Slip gauge for 29 758 mm 29 758 1 005 G1 28 750 1 250 G2 27 500 G3 20 000 20 000 G4 00 000 Build Slip Gauge for 46 635 mm 46 005 G1 45 630 1 130 G2 44 500 4 500 G3 40 000 40 000 G4 00 000 അതിനാൽ ഒരു തുക കൂടി ശ്രമിക്കാം ഒരു സ്ലിപ്പ് ഗേജിന്റെ സഹായത്തോടെ ഒരു സെറ്റ് ആകാൻ 57 895 മില്ലിമീറ്റർ അളവ് ആവശ്യമാണ് എം 45 ഗ്രേഡ് 0 എം 112 ഗ്രേഡ് എന്നിവയുടെ 2 സെറ്റുകൾ ലഭ്യമാണ് ശരി ഓരോ സെറ്റിലെയും ശ്രേണികളും പീസുകളുടെ എണ്ണവും ചുവടെ നൽകിയിരിക്കുന്നു അതിനാൽ ഇത് ഗ്രേഡ് 0 നും ഇത് ഗ്രേഡ് 2 നും വേണ്ടിയുള്ളതാണ് അതിനാൽ 2 സെറ്റുകൾ ലഭ്യമാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ 57 895 നിർമ്മിക്കണം അനുവദനീയമായ എററിൽ ഗ്രേഡ് 0 ഗ്രേഡ് 2 എന്നിവയുടെ ശരാശരി നീളത്തിൽ യൂണിറ്റുകൾ പ്രസ്താവിക്കുന്നു ഇവയായാണ് ഗ്രേഡുകൾ ഇവയായാണ് സജ്ജമാക്കിയഎററുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സെറ്റും തിരഞ്ഞെടുത്ത സെറ്റിനൊപ്പം അളക്കുന്ന ശ്രേണിയും നിർണ്ണയിക്കുക അതിനാൽ ഇവ നീളമാണ് അനുവദനീയമായ എററുകൾ യൂണിറ്റുകളും ഇവിടെ ഒരു ഗ്രേഡും നൽകിയിരിക്കുന്നു ഇവ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ M 45 അതിനാൽ ഇത് 57 895 ആണ് അതിനാൽ ആദ്യം നമ്മൾ 1 005 എടുക്കും അതിനാൽ ഇത് 56 890 ആണ് അതിനാൽ ഇത് മൈനസ് 1 09 ആണ് അതിനാൽ ഇത് 55 800 ആണ് അത് 1 800 ആണ് പിന്നെ 54 ഉം അത് 4 ഉം 4 ഉം 50 ഉം ആണ് ശരി അതിനാൽ അനുവദനീയമായ പരമാവധി ടോളറൻസ് എന്താണ് നിങ്ങൾ ഇതിലൂടെ പോയാൽ പരമാവധി ടോളറൻസ് ലഭിക്കും M45 57 005 G1 55 090 G2 55 000 G4 50 00055 mm Maximum Dimension 57 89555 mm Minimum Dimension 57 89445 mm Range Maximum - Minimum 57 89555 - 57 89445 0 0211 mm നേടാവുന്ന ടോളറൻസ് 10 ആണ് ഈ രണ്ട് ശ്രേണികൾക്കിടയിൽ 20 മുതൽ 60 വരെ വീഴുമ്പോൾ അത് പ്ലസ് 15 ആണ് ശരി അതിനാൽ പരമാവധി ടോളറൻസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 15 ആണ് ശരി അതിനാൽ ഇത് 55 ന് തുല്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓരോ ഡിവിഷനും 100 ബൈ 1000 ആണെന്ന് അവർ പറഞ്ഞു അതിനാൽ ഇത് 0 00055 മില്ലിമീറ്റർ ശരി അതിനാൽ പരമാവധി അളവ് 57 895 പ്ലസ് 0 00055 ഉം ഏറ്റവും കുറഞ്ഞ അളവ് 57 895 മൈനസ് 0 00055 ഉം ആയിരിക്കും ശരി അതിനാൽ ശ്രേണിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ശ്രേണിയെ മാക്സിമം മൈനസ് മിനിമം ഇതാണ് അതിനാൽ ഇത് ഉപയോഗിക്കുന്നത് ഇത് M 45 നുള്ളതാണ് അതിനാൽ അതേ രീതിയിൽ M അതിനാൽ നമുക്ക് M 112 എന്ന മറ്റൊരു കാര്യം ഉണ്ട് രണ്ടാമത്തെ സെറ്റ് M 112 ഉപയോഗിച്ച് വീണ്ടും നമ്മൾ പരിഹരിക്കേണ്ട പ്രശ്നം സമാനമായിരിക്കും അതിനാൽ ഇത് 57 ആകും ഇത് രണ്ട് തുകകൾക്കും തുല്യമായിരിക്കും അതിനാൽ എം 45 നും എം 112 നും തുല്യമാണ് അതിനാൽ പരമാവധി അപ്പർ ടോളറൻസ് 50 പ്ലസ് 50 പ്ലസ് 50 പ്ലസ് 80 ആയിരിക്കും ഇത് 230 ഇത് എങ്ങനെ ചെയ്യും 50 50 എല്ലാം വരുന്നുണ്ടോ അതിനാൽ ഇവിടെ ഗ്രേഡ് 2 50 50 ഗ്രേഡ് 2 ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 0 ഗ്രേഡ് 2 എന്നിവയ്ക്ക് നൽകിയിരിക്കുന്നു അതിനാൽ 50 50 80 ഇവിടെ നിന്ന് വന്നിരിക്കുന്നു ഇത് ഗ്രേഡ് 2 നാണ് ഇപ്പോൾ 230 നമ്മൾ അങ്ങനെ ഗുണിക്കും അപ്പർ ടോളറൻസ് upper tolerance അതിനാൽ മറ്റൊന്ന് 230 മുതൽ 1 ബൈ 100000 വരെ 0 0023 മില്ലിമീറ്റർ അതിനാൽ പരമാവധി ലോവർ ടോളറൻസ് അപ്പർ ലോവർ ടോളറൻസ് 20 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 50 ആയിരിക്കും അത് 110 ആണ് അതിനാൽ അതായത് 110 മുതൽ 100000 വരെ 0 0011 മില്ലിമീറ്റർ അതിനാൽ ഈ ഗ്രേഡ് എം 112 ലെ പരമാവധി അളവുകൾ 57 895 പ്ലസ് 0 0023 ആയിരിക്കും അത് ഒന്നുമല്ല പക്ഷേ 57 8973 മില്ലിമീറ്ററും മിനിമം അളവും 57 0023 ആയിരിക്കും അത് ഒന്നുമല്ല 57 8939 മില്ലിമീറ്ററാണ് 89555 mm → Grade 0 അതിനാൽ ശ്രേണി പരിധി ആകാൻ പോകുന്നത് ഒന്നുമല്ല മാക്സിമം മൈനസ് മിനിമം 8939 മില്ലിമീറ്റർ വരെയാണ് ശരി അതിനാൽ അത് വ്യക്തമാണ് എന്താണ് വ്യക്തമായത് എന്താണ് ഒരു ശ്രേണി നിങ്ങൾക്ക് 0 005 ഉണ്ട് അതിനുശേഷം എനിക്ക് ഇത് ഗ്രേഡ് II എം 112 ആണെങ്കിൽ മുമ്പത്തെ ശ്രേണി നിങ്ങൾ പരിഹരിക്കുന്നതെന്തും 57 89555 മില്ലിമീറ്റർ വരെയാണ് ഇത് ഗ്രേഡിനുള്ളതാണ് ഇത് ഗ്രേഡ് 0 എം 45 ആണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും എം 112 ന്റെ ഗ്രേഡ് II നെ അപേക്ഷിച്ച് കൂടുതൽ കൃത്യതയ്ക്കായി എം 45 തിരഞ്ഞെടുക്കണമെന്ന് വ്യക്തമാണ് അതിനാൽ ഇതുപോലെ നിങ്ങൾക്ക് പരീക്ഷയിൽ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം അതിനാൽ ലീനിയർ അളക്കലിനായി സ്ലിപ്പ് ഗേജ് ഉപയോഗിക്കുന്നു ഈ ലീനിയർ മെഷർമെന്റ് അല്ലെങ്കിൽ ലൈൻ മെഷർമെന്റ് നല്ലതാണ് പക്ഷേ ഏൻഡ് അളവ് നിങ്ങൾക്ക് കൂടുതൽ കൃത്യത നൽകുന്നു അതിനാൽ ആവശ്യമായ അളവിലേക്ക് ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിന് നമ്മൾ സ്ലിപ്പ് ഗേജുകൾ ഉപയോഗിക്കുന്നു തുടർന്ന് ഉയരം അളക്കുകയോ നീളം അളക്കുകയോ ശ്രമിക്കുക ലീനിയർ മെഷർമെന്റ് അധ്യായത്തിൽ നമ്മൾ കണ്ടതെല്ലാം വീണ്ടും വിശദീകരിക്കാൻ ശ്രെമിക്കാം ആദ്യം നമ്മൾ ആമുഖം കണ്ടു പിന്നെ നമ്മൾ വിവിധ മാർഗ്ഗനിർദ്ദേശങ്ങൾ കണ്ടു അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട മാർഗ്ഗനിർദ്ദേശങ്ങളാണ് റീഡബിലിറ്റി റിലയബിലിറ്റി റിപ്പീറ്റബിലിറ്റി പ്രിസിഷൻ ആക്യൂറസി readability reliability repeatability precision accuracy ഇവയെല്ലാം നമ്മൾ അന്ന് കണ്ടു ഒപ്പം ആക്സിസ് അളന്ന ഘടകവുമായി പൊരുത്തപ്പെടണം തുടർന്ന് ഉപരിതല പ്ലേറ്റിനെക്കുറിച്ച് നമ്മൾ കണ്ടു നമ്മൾ ഒരു വി ബ്ലോക്കിനായി പോയി വി ബ്ലോക്ക് ഇതുപോലെയായിരുന്നു നമ്മൾ ഒരു വൃത്താകൃതിയിലുള്ള ഒന്ന് ഇട്ടു തുടർന്ന് നിങ്ങൾക്ക് ഉയരം അളക്കാൻ ശ്രമിക്കാം അതിനാൽ വി ബ്ലോക്ക് വിവിധ ഗ്രാജുവേറ്റഡ് സ്കെയിലുകളും വെർനിയർ കാലിപ്പർ മൈക്രോമീറ്റർ ഹയിറ്റ് ഗേജ് Vernier caliper micrometer height gauge പോലുള്ള വ്യത്യസ്ത സ്കെയിൽ ഉപകരണങ്ങളും നമ്മൾ കണ്ടു ഒടുവിൽ സ്ലിപ്പ് ഗേജുകളുടെ ഉപയോഗം നമ്മൾ കണ്ടു ഒരു ചെറിയ അസൈൻമെന്റ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരു സ്ക്രൂ എടുക്കാം ഈ സ്ക്രൂ അളവ് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിച്ചു ശരി അതിനാൽ നിങ്ങൾക്ക് ഒരു കൌണ്ടർപാർട്ടും ഉണ്ടാകും സ്ക്രൂവിന്റെ വ്യാസം അളക്കാൻ എനിക്ക് ഒരു സ്ക്രൂ ഗേജ് അല്ലെങ്കിൽ ഒരു വെർനിയർ ഉപയോഗിക്കാമോ ശരി അതിനാൽ ഇത് പോയിന്റ് നമ്പർ 1 ആണ് രണ്ടാമത്തെ കാര്യം എനിക്ക് ആംഗിൾ അളക്കേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ത്രെഡുകൾക്കിടയിലുള്ള ഈ ആംഗിൾ ഞാൻ എങ്ങനെ അളക്കും ഞാൻ അത് എങ്ങനെ ചെയ്യും രീതി എന്തായിരിക്കണം അവസാനത്തേത് ഏതെങ്കിലും അളവിലുള്ള 6 മില്ലിമീറ്റർ 8 മില്ലിമീറ്റർ ഒരു ഡ്രിൽ എടുക്കാൻ ശ്രമിക്കുക ശരി ഏതെങ്കിലും ഡ്രിൽ ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് വ്യാസം അളക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഫലങ്ങൾ ശരിയാണോ എന്ന് നോക്കുക ശരി അതിനാൽ ഇവ മൂന്നും നിങ്ങൾക്കുള്ള അസൈൻമെന്റുകളാണ് ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ അളക്കുന്ന നിമിഷം പൊരുത്തക്കേടിന്റെ കാരണം എന്താണെന്ന് ചിന്തിക്കുക നിങ്ങൾക്കത് കൃത്യമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകമോ സ്പെസിഫിക്കേഷനോ ഉപയോഗിച്ച് പരിശോധിക്കുക അത് ആ പ്രത്യേക സ്ക്രൂവിനായി അല്ലെങ്കിൽ നിങ്ങൾ അളന്നതും അവ നൽകിയതും പൊരുത്തപ്പെടുന്നതാണ് വളരെ നന്ദി